സൂചകപദങ്ങൾ ആഖ്യാനം റീഫ്ലവറിങ് ഫ്ലാഷ്ബാക്കുകൾ ഫോർഷാഡോ അനലെപ്സിസ് പ്രോലെപ്സിസ് ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഈ പ്രഭാഷണത്തിന് 'സുന്ദര രാമസ്വാമിയുടെ' റീഫ്ലവറിംഗ് 'എന്നതിലെ ആഖ്യാന ഉപകരണങ്ങൾ എന്ന് പേരിട്ടു അതിനാൽ ഈ നിർദ്ദിഷ്ട ആഖ്യാനത്തിലെ ചില ആഖ്യാന ഉപകരണങ്ങൾ നമുക്ക് നന്നായി നോക്കാം ഇപ്പോൾ എനിക്ക് ഫ്ലാഷ്ബാക്കുകളുടെ ഈ ആശയം എടുക്കാൻ ആഗ്രഹമുണ്ട് ഈ കഥയുടെ തുടക്കത്തിൽ നമുക്ക് വിപുലമായ ഫ്ലാഷ്ബാക്ക് ഉണ്ട് അതിനാൽ നമുക്ക് ഈ പ്രത്യേക ഫ്ലാഷ്ബാക്ക് അൺപാക്ക് ചെയ്യാം കാരണം ഇത് ഷോപ്പിന്റെ ഉടമയും കേന്ദ്ര കഥാപാത്രമായ റൌത്തറും തമ്മിലുള്ള ആദ്യ പ്രതിസന്ധി പിടിച്ചെടുക്കുന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ആദ്യത്തെ പ്രതിസന്ധി തന്നെ ഈ കഥയുടെ ആഖ്യാതാവ് ഒരു ഫ്ലാഷ്ബാക്കായി വായനക്കാർക്ക് സമ്മാനിക്കുന്നു അത് വായനക്കാരനിൽ സൃഷ്ടിക്കുന്ന ആഘാതവും ഉടനടി ആദ്യ തലത്തിൽ അത് എന്താണ് ചെയ്യുന്നത് എന്നും പര്യവേക്ഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ആഖ്യാനത്തിൽ നിലവിലെ പോയിന്റിൽ നിന്ന് ഒരു പടി പിന്നിലേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്നു അതിനാൽ ഈ ഫ്ലാഷ്ബാക്ക് വിവരണത്തിലൂടെ ടൈം ലൈൻ മാറുന്നു ഇപ്പോൾ ഫ്ലാഷ്ബാക്ക് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആഖ്യാതാവ് ആ ആൺകുട്ടി ബഗ്ഗിയിലേക്ക് കയറി എന്നിട്ട് അവൻ ഈ ചിന്തകൾ ചിന്തിക്കുന്നു കാത്ത് നിൽക്കുന്ന ബഗ്ഗിയിൽ കയറിയപ്പോൾ ഞാൻ കരുതി റൌത്തറില്ലാതെ നമുക്ക് ഓണം ഫെസ്റ്റിവൽ സെയിൽസ് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ ബഗ്ഗിയിൽ സഞ്ചരിക്കുമ്പോൾ കുതിര വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ റൌത്തറും പിതാവും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ നടന്ന ആ പ്രത്യേക സായാഹ്നത്തിലേക്ക് അവൻ തിരികെ പോകുന്നു അവരുടെ അഹംഭാവത്തിന്റെ യുദ്ധം അവൻ പിടിച്ചെടുക്കുന്നു സംഭാഷണങ്ങളും എല്ലാ അഭിപ്രായങ്ങളും കൃത്യമായി തന്റെ ആഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആഖ്യാതാവിനെക്കുറിച്ച് വീണ്ടും ഒരു വാക്ക് കാരണം ഈ ആഖ്യാതാവ് ഒരു കൊച്ചുകുട്ടിയാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് ആ ആൺകുട്ടി കടയുടമയുടെ മകനാണ് അവൻ ചെറുപ്പമാണെങ്കിലും അവന്റെ ഉയർന്ന ഉത്തരവാദിത്തവും അവൻ അവന്റെ കാഴ്ചപ്പാടുകളിൽ പക്വതയുള്ളവനുമാണ് കൂടാതെ അയാൾക്കുള്ള ചിന്താ രീതിയും ചിന്താ പ്രക്രിയയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവ വളരെ വ്യക്തവും യുക്തിസഹവുമാണെന്ന് ഇത് കാണിക്കുന്നു ഇപ്പോൾഫ്ലാഷ്ബാക്കുകളിലെ ആഖ്യാന സമയത്തിന്റെ വിശകലനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചുരുക്കമായി കാണാൻ ആഗ്രഹിക്കുന്ന ഉദ്ധരണി ഇതാണ് 'ആ വർഷം ഓണക്കാലത്ത് വിൽപ്പനകൾ വളരെ മികച്ചതായിരുന്നു റൌത്തർ അന്ന് ഒരു ഘടകമായിരുന്നു അദ്ദേഹം മഹാഭാരതത്തിലെ അഭിമന്യുവിനെ പോലെ ഒരൊറ്റ കൈകൊണ്ട് പോരാടുന്നതായി കാണപ്പെട്ടു' അതിനാൽ ഫ്ലാഷ്ബാക്ക് പിന്തുടരുന്ന ഉദ്ധരണി ഇതാണ് പ്രശ്നം പരിഹരിച്ചയുടൻ റൌത്തറിന്റെ പെരുമാറ്റവും ഓണ വിൽപ്പനയ്ക്കിടെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഈ ആലേഖനം ചുരുക്കത്തിൽ പകർത്തുന്നു ഇവിടെ എനിക്ക് ആലങ്കാരിക ഭാഷയിൽ താൽപ്പര്യമുണ്ട് റൌത്തറിനെ അഭിമന്യുവുമായി താരതമ്യം ചെയ്യുന്നത് നമുക്ക് കാണാം മഹാഭാരതത്തിൽ നിന്ന് എടുത്ത ഒരു സാദൃശ്യം നമ്മുടെ പക്കലുണ്ട് അത് വളരെ രസകരമാണ് കാരണം അഭിമന്യു ധീരനായ ഒരു കഥാപാത്രമാണ് പക്ഷേ അവൻ നിരപരാധിയും നിഷ്കളങ്കനുമാണ് അവൻ ഒടുവിൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അവന്റെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യുന്നു അഭിമന്യുവിന്റെ ഈ പ്രത്യേക കഥാപാത്രവുമായി റൌത്തറിനെ താരതമ്യം ചെയ്യുന്നത് രസകരമാണ് ഈ നിർദ്ദിഷ്ട ആലങ്കാരിക ഭാഷ ഒരു ഇരുതല മൂർച്ചയുള്ള താരതമ്യമാണെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ഒപ്പം മതപരമായ ഇതിഹാസത്തിൽ നമുക്ക് ഒരു ഉറവിടമുണ്ട് ഹിന്ദു മത ഇതിഹാസത്തിൽ ഓക്കേ ഇപ്പോൾ എനിക്ക് ആഖ്യാനസമയത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ട് അതിനാൽ നിർദ്ദിഷ്ട ആഖ്യാനത്തിൽ അല്ലെങ്കിൽ ഫിക്ഷനിൽ നമുക്ക് രണ്ട് സമയ തലങ്ങളുണ്ട് ആദ്യത്തേത് കഥാ സമയമാണ് ഞാൻ സ്ലൈഡിൽ ഇട്ട ആദ്യത്തെ പോയിന്റ് എന്നത് കഥാ സമയമാണ് മറ്റൊന്ന് പ്രഭാഷണ സമയം ആണ് കൂടാതെ ഫ്ലാഷ്ബാക്കുകളും ഫോർഷാഡോയിങ്ങുകളും നന്നായി മനസ്സിലാക്കാൻ ഈ രണ്ട് സമയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കേ അതിനാൽ ഈ രണ്ട് സമയങ്ങൾ ഫോർഷാഡോയിങ്ങും ഫ്ലാഷ്ബാക്കുകളുടെയും ആശയങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഓക്കേ

അപ്പോൾ എന്താണ് കഥാ സമയം എന്താണ് പ്രഭാഷണ സമയം കഥാ സമയം എന്നത് കഥാപാത്രങ്ങൾ അനുഭവിച്ച സമയമാണ് ഓക്കേ ഓരോ സംഭവവും ഒന്നിനു പുറകെ മറ്റൊന്നായി യുക്തിപരമായി സമയവുമായി ബന്ധപ്പെട്ട് കഥാപാത്രങ്ങൾ സമയം ഓരോന്നായി അനുഭവിക്കുന്നു കൂടാതെ പ്രഭാഷണ സമയം എന്നത് വായനക്കാർ അനുഭവിക്കുന്ന സമയമാണ് ഈ രണ്ട് സമയ പരാമർശങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ദയവായി ശ്രദ്ധിക്കുക നമുക്ക് ഈ ആശയങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി നോക്കാം ഓക്കേ സാധാരണയായി നമ്മൾ ഒരു കഥ മനസ്സിലാക്കുമ്പോൾ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു സമയത്തിന്റെയും കാരണത്തിന്റെയും യുക്തിക്കനുസരിച്ചാണ് സംഭവങ്ങൾ നടക്കുന്നത് ഒരു കാര്യം മറ്റൊന്നിലേക്ക് നയിക്കുന്നു ഒപ്പം കാര്യങ്ങൾ കൃത്യസമയത്ത് സംഭവിക്കുന്നു എന്നാൽ ഒരു രചയിതാവിന് പ്രത്യേക ഉദ്ദേശ്യങ്ങൾക്കായി അവ സംഭവിച്ച സമയം അവഗണിച്ച് സംഭവങ്ങൾ പുനഃക്രമീകരിക്കാൻ കഴിയും അതിനാൽ സംഭവങ്ങൾ രചയിതാവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ആഖ്യാനത്തിൽ പുനഃക്രമീകരിക്കാൻ കഴിയും കൂടാതെ അവ കഥയുടെ സമയം പിന്തുടരേണ്ടതില്ല ഓക്കേ അതിനാൽ ഒരു ആഖ്യാനത്തിൽ ഒരു രചയിതാവിന് വിവരങ്ങൾ നൽകാൻ കഴിയും നാടകീയ പ്രതീതിക്കായി ഒരു ആഖ്യാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കുവാനും കൂടാതെ നാടകീയ പ്രതീതിക്കായി മനഃപൂർവ്വം കഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒളിച്ചുവയ്ക്കാനും രചയിതാവിന് കഴിയും അതിനാൽ കഥയുടെ ലോകം സൃഷ്ടിക്കുന്ന രചയിതാവിന്റെ തിരഞ്ഞെടുപ്പാണ് ഇത് വായനക്കാരിൽ ഒരു പ്രത്യേക പ്രതീതി സൃഷ്ടിക്കുന്നതിനായി അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുന്നു അതിനാൽ ഈ കഥാ സമയവും പ്രഭാഷണ സമയവും അവയെല്ലാം പരമാവധി സ്വാധീനം ചെലുത്തുന്നതിനായി ഒരു പ്രത്യേക രീതിയിൽ സംഭവങ്ങളെ ക്രമീകരിക്കുന്ന എഴുത്തുകാരന്റെ ആധികാരിക തീരുമാനത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് സംഭവങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി സംഭവിക്കുമ്പോൾ അവന് അവ നിങ്ങൾക്ക് നൽകാൻ കഴിയും ആദ്യം ഇത് സംഭവിക്കുന്നു രണ്ടാമത് ഇത് സംഭവിക്കുന്നു മൂന്നാമത് ഇത് സംഭവിക്കുന്നു ഇതാണ് അവസാനമായി സംഭവിക്കുന്നത് അതാണ് കഥാ സമയം ചില സമയത്ത് അവന് സംഭവങ്ങളുടെ ക്രമത്തിൽ ഇടപെടാൻ കഴിയും അയാൾക്ക് കാര്യങ്ങളെ തീർത്തും നിസ്സാരമായി ക്രമീകരിക്കാൻ കഴിയും വായനക്കാരനിൽ പരമാവധി നാടകീയ പ്രതീതി സൃഷ്ടിക്കുന്നതിനായി അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്വന്തം യുക്തിക്ക് അനുസരിച്ച് അവർക്ക് പരമാവധി ആനന്ദം അതിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി ഓക്കേ അതിനാൽ ഞാൻ ഈ നിർണായകമായ ആഖ്യാനത്തിലേക്ക് പോകാൻ പോകുന്നു വിമർശനാത്മക ജെറാർഡ് ജെനെറ്റ് അത് ഈ താൽക്കാലിക അസമത്വം ആഖ്യാനത്തിലെ താൽക്കാലിക വ്യത്യാസങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ അദ്ദേഹം ഈ താൽക്കാലിക അസമത്വങ്ങളെ അനലെപ്സിസ് പ്രോലെപ്സിസ് എന്നീ പദങ്ങളാൽ വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് ആദ്യം അനലെപ്സിസ് നോക്കാം അനലെപ്സിസ് എന്നതിന്റെ അർത്ഥമെന്താണ് വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അനലെപ്സിസ് നമ്മോട് പറയുന്നു അല്ലെങ്കിൽ കാണിക്കുന്നു അതിനാൽ വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് ഒരു തരം ഫ്ലാഷ്ബാക്കാണ് അത് കഥ പഴയ കാലത്തിലേക്ക് പോകുന്നത് പോലെയാണ് കഥ റിവൈൻഡ് ചെയ്യുന്നു തിരികെ പോകുന്നു അത് ട്രാക്കുകൾ പിന്തുടരുന്നു സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് വായനക്കാരോട് പറയാൻ ആരോ കഥയിലെ ഒരു പ്രത്യേക പോയിന്റിലേക്കുള്ള റൂട്ടിൽ പിന്നോട്ട് പോകുന്നു അതിനാൽ അതാണ് അനലെപ്സിസ് ആ പോയിന്റ് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട ഭൂതകാലം അനലെപ്സിസ് ആണ് അത് ആഖ്യാനത്തിന്റെ റിവൈൻഡിംഗ് പോലെയാണ് റീഫ്ലവറിങ്ങിലെ ആദ്യ പ്രതിസന്ധിയിലും ഇതാണ് സംഭവിക്കുന്നത് നിങ്ങൾ കഥ ഓർക്കുന്നുവെങ്കിൽ അത് അമ്പിയുടെ വീട്ടിൽ നിന്നും തുടങ്ങുന്നു കുടുംബക്കാർ എല്ലാം എഴുന്നേറ്റു അച്ഛൻ ജോലിക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്നിട്ട് അച്ഛൻ പറയുന്നു പോയി റൌത്തറേ അവന്റെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുവരിക എന്ന് എന്നിട്ട് ആൺകുട്ടി ബഗ്ഗിയിൽ കയറുന്നു അവൻ റൌത്തറിന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു തുടർന്ന് അവൻ തന്റെ പിതാവും റൌത്തറും തമ്മിലുള്ള ആ പ്രത്യേക ഏറ്റുമുട്ടൽ സമയത്തിലേക്ക് തിരികെ പോകുന്നു കൂടാതെ ആ മുഴുവൻ എപ്പിസോഡും അവന്റേതായ ചില വ്യാഖ്യാനങ്ങളും ഉപയോഗിച്ച് കൊണ്ടും ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ അവൻ പിടിച്ചെടുത്തു അതിനാൽ റിഫ്ലവറിംഗിൽ ആ അനലെപ്സിസ് അവിടെ ഉണ്ട് നമുക്ക് പ്രോലെപ്സിസിലേക്ക് നോക്കാം അപ്പോൾ എന്താണ് പ്രോലെപ്സിസ് കഥയിൽ ഇപ്പോഴുള്ളതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ സംഭവിക്കുന്നതാണ് പ്രോലെപ്സിസ് അതിനാൽ ഇപ്പോഴുള്ളത് വർത്തമാനമാണ് ഭൂതകാലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിന്റെ സൂചന വർത്തമാനകാലത്ത് നിങ്ങൾക്ക് ലഭിക്കും ക്ഷമിക്കണം ഭാവിയിൽ അതിനാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും അതാണ് പ്രോലെപ്സിസ് അത് കഥ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ഒരു അവബോധം ലഭിക്കും ഭാവിയെക്കുറിച്ചുള്ള ഒരു മുൻകരുതൽ അത് കഥ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് പോലെയാണ് അത് മുൻകൂട്ടി കാണിക്കുന്നു ആ ആശയം കഥയിൽ സംഭവിക്കുന്ന മുൻനിഴൽ എന്ന ഈ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്ലാഷ്ബാക്ക് അല്ലെങ്കിൽ ഫോർഷാഡോയിങ് പോലെയുള്ള സമയവുമായി ബന്ധപ്പെട്ട് രചയിതാവ് ഈ ആഖ്യാന ഉപാധികൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് കഥയിൽ അത്തരം ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അർത്ഥമെന്താണ് ഒന്നാമതായി ഇത് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു നമ്മൾ ഒരു നിമിഷം എടുത്ത് നോക്കാൻ ഉള്ള ഒരുതരം പ്രവണത കാണിക്കുന്നു ഓ മൈ ഗോഡ് ഇത് ആഖ്യാന സമയ പോയിന്റിലേക്ക് മടങ്ങുകയാണ് ഇത് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സൂചനയാണ് അതിനാൽ അത്തരം തീരുമാനങ്ങൾ അത്തരം ആധികാരിക തീരുമാനങ്ങൾ ഈ കഥയുടെ ഘടന ഇതിവൃത്തത്തിന്റെ ഘടന പ്ലോട്ടിന്റെ പാത എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന വായനക്കാരുടെ ശ്രദ്ധ പിടിച്ച് പറ്റുന്നു ഈ വിവരണ ഉപകരണങ്ങളിലെല്ലാം സസ്പെൻസും ജിജ്ഞാസയും ആശ്ചര്യവും വീണ്ടും ഉൾപ്പെട്ടിരിക്കുന്നു ആത്യന്തികമായി ഈ ഘടകങ്ങളുടെയെല്ലാം കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ സസ്പെൻസ് ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ജിജ്ഞാസ ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സർപ്രൈസുകൾ ഇഷ്ടപ്പെടുന്നത് കാരണം അതാണ് വായനാസുഖം അതാണ് ഫിക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി ആത്യന്തികമായി ഇത് ആസ്വാദനത്തെക്കുറിച്ചാണ് കഥയുടെ ഘടനയിൽ നിന്നാണ് ആസ്വാദനം ഉണ്ടാകുന്നത് രസകരമായ ഈ ആഖ്യാന ഉപകരണങ്ങൾ രചയിതാക്കളെ അത്തരമൊരു പ്രതീതി നേടാൻ സഹായിക്കുന്നു ഫ്ലാഷ്ബാക്കിൽ ആശ്ചര്യത്തിന്റെ ഒരു ഘടകമുണ്ടെന്ന് വീണ്ടും നമ്മൾ ഊന്നിപ്പറയേണ്ടതുണ്ട് തീർച്ചയായും ഫോർഷാഡോയിങ്ങും ഒപ്പം ആശ്ചര്യപ്പെടുത്തുന്ന ആ ഘടകവും ഒരു കഥയുടെ വിജയത്തിന് നിർണായകമാണ് ചിലപ്പോൾ ഈ കഥ വായനക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല എന്നാൽ കഥ എങ്ങനെ വിവരിച്ചിരിക്കുന്നു എന്നത് ഒരു വായനക്കാരനിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നു അതിനാൽ നമുക്ക് റീഫ്ലവറിങ് എന്നതിലേക്ക് മടങ്ങാം ഞാൻ സൂക്ഷ്മമായി നോക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്ധരണിയാണിത് കാരണം ഈ നിർദ്ദിഷ്ട ഉദ്ധരണി ആ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ആ എപ്പിസോഡ് കടയുടമയും റൌത്തറും തമ്മിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു 'വൈകിട്ട് കട അടയ്ക്കുമ്പോൾ റൌത്തർ സാധാരണയായി എന്റെ പിതാവിനെ നോക്കുകയും പോകാനുള്ള അനുവാദം വാങ്ങുകയും ചെയ്യുമായിരുന്നു അതിനാൽ അതാണ് പതിവ് ആചാരം അവൻ എന്റെ പിതാവിനെ നോക്കും അവൻ പോകാൻ അവസരം കണ്ടെത്തുകയും ചെയ്യുന്നു ഈ പ്രത്യേക സായാഹ്നത്തിൽ അവൻ അനുമതി വാങ്ങിയില്ല ഈ പ്രത്യേക സായാഹ്നത്തിൽ അവൻ അത് ചെയ്യുന്നില്ല ഈ നിർദ്ദിഷ്ട ഉദ്ധരണി ഫ്ലാഷ്ബാക്ക് എപ്പിസോഡിന്റെ ഭാഗമാണ് ഭൂതകാലത്തിലെ എപ്പിസോഡ് വർത്തമാനകാലത്ത് ഉൾച്ചേർത്തിരിക്കുന്നു ആ നിർദ്ദിഷ്ട ഉദ്ധരണിയുടെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ രസകരമായ ചില ഘടകങ്ങളുണ്ട് ആദ്യത്തേത് റൌത്തർ കാഴ്ചയില്ലാതെ തന്നെ അധികാരത്തിന്റെ ദിശയിലേക്ക് നോക്കുന്നു റൌത്തർ അന്ധനാണെന്ന് നാം ഓർക്കണം അവൻ പ്രതീകാത്മകമായി തന്റെ മേലധികാരിയെ തന്റെ തൊഴിലുടമയെ നോക്കുന്നു ആ നോട്ടം ശരിക്കും കണ്ണ് കാണാൻ സാധിക്കാഞ്ഞിട്ടും അവന്റെ വിധേയത്വം കടയിലെ അധികാരത്തോടുള്ള അവന്റെ വിധേയത്വം ആ പ്രത്യേക സായാഹ്നത്തിൽ നിങ്ങൾ ആ ഉദ്ധരണിയിലേക്ക് തിരികെ പോകുകയാണെങ്കിൽ ആ നിർദ്ദിഷ്ട സായാഹ്നത്തിൽ ആ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം ചില കാര്യങ്ങളിൽ ദർശനമില്ലാതെ തകരുന്നു അടുത്ത ദിവസം വീണ്ടും വരാനായി കടയിൽ നിന്ന് പോകാനുള്ള പ്രതീകാത്മക അനുമതി ലഭിക്കാൻ വേണ്ടി അവൻ ആ രീതിക്ക് നോക്കുന്നില്ല അങ്ങനെ റൌത്തറും കടയുടമയും തമ്മിലുള്ള ആ ബന്ധം തകരുന്നു ഒപ്പം ഈ പ്രത്യേക എപ്പിസോഡും അല്ലെങ്കിൽ ഈ പ്രത്യേക ഖണ്ഡിക അതിന്റെ ആദ്യ മൂന്നിലൊന്നിലെ കഥയിലെ ആ പ്രതിസന്ധിക്ക് ഒരു നടുക്കുന്ന പരിസമാപ്തി കൊണ്ടുവരുന്നു അതിനാൽ അവൻ അനുവാദം വാങ്ങുന്നില്ല അതിനർത്ഥം അയാൾക്ക് ഈ ഉടമയോട് കൂടുതലൊന്നും പറയാനില്ല അവൻ അവിടം വിട്ട് പോകാൻ പോകുന്നു സ്ഥിരമായി എന്ന മട്ടിൽ അതിനാൽ കഥയിലെ ആ പ്രത്യേക പ്രതിസന്ധിയുടെ നടുക്കുന്ന പരിസമാപ്തി അതാണ് അതിനാൽ ഫ്ലാഷ്ബാക്ക് ഈ കഥയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ആചാരങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന വിള്ളൽ വായനക്കാരിൽ സ്വാധീനം ചെലുത്തുന്നു അത് വായനക്കാരുടെ സ്വാധീനം അല്ലെങ്കിൽ വായനക്കാരിൽ ചെലുത്തുന്ന സ്വാധീനം എന്നിവയെ അടിസ്ഥാനമാക്കി കഥയ്ക്ക് ആദ്യത്തെ ഞെട്ടിപ്പിക്കുന്ന ചലനം നൽകുന്നു പെട്ടെന്നുള്ള ഈ വിള്ളലിന് ശേഷം വായനക്കാരെന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ അത് ഉണ്ട് കൂടാതെ നമ്മൾ ഇപ്പോൾ കാണുന്നു അമ്പി എന്ന കുട്ടി റൌത്തറിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്താണ് സംഭവിക്കുകയെന്ന് നമ്മൾ അൽപ്പം ആശങ്കാകുലരാണ് കാരണം കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ വിള്ളൽ ആയിരുന്നു അത് ഉടമയും റൌത്തറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് എല്ലാവരും സാക്ഷികളാണ് ഒപ്പം റൌത്തർ എങ്ങനെ പെരുമാറും എന്നതിനെ കുറിച്ച് നമ്മൾ അൽപ്പം ആശങ്കാകുലരാണ് അതിനാൽ കടയുടമയുടെ മകനായ ആൺകുട്ടിയോട് അയാൾ അൽപ്പം പരുക്കനായി പെരുമാറിയേക്കാമെന്ന് നമ്മൾ കരുതിയേക്കാം പക്ഷേ അത് സംഭവിക്കുന്നില്ല അതിന് നേരെ വിപരീതമാണ് അമ്പിക്ക് സംഭവിക്കുന്നത് വീട്ടിലെ നാഥനായി ഇരിക്കുന്ന റൌത്തർ അവനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു അവനെ പ്രതിസന്ധി ബാധിച്ചിട്ടില്ല ഉടമയുമായുള്ള വഴക്ക് അവനെ ബാധിച്ചു അവൻ ഒരു നാഥനെപ്പോലെ തന്റെ വീടിന്റെ നടുവിൽ ഇരുന്നു കൂടാതെ അവൻ അമ്പിയെ സ്വാഗതം ചെയ്യുന്നു അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏത് തരം ആണെന്നും ഏത് തരം അരക്കെട്ട് തുണി ആണ് എന്നിവ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നു കൂടാതെ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ അവൻ ഒരു തരത്തിൽ അവന്റെ മുഖത്ത് സ്പർശിക്കുന്നു അതുപോലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നു അവൻ കുട്ടിയുടെ അമ്മയെ കുറിച്ച് അന്വേഷിക്കുന്നു അവൻ പൂർണ്ണമായും സ്വസ്ഥതയിലാണ് റൌത്തർ സമചിത്തതയോടെ ഇരിക്കുന്നു വായനക്കാരിൽ ഈ കഥ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ കാര്യത്തിൽ ആ വികാരത്തിലെ മാറ്റം വളരെ രസകരമാണ് അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് അവൻ ഒരു അഭിപ്രായം പറഞ്ഞയുടനെ അവൾ കഴിക്കേണ്ട മരുന്നും അതുപോലുള്ള കാര്യങ്ങളും റൌത്തർ അവന് പറഞ്ഞ് കൊടുക്കുന്നു ആ കുട്ടി പറയുന്നു താൻ അയാളെ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഖേദിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു ദയവുചെയ്ത് അവരുടെ അഭ്യർത്ഥന നിരസിക്കരുതെന്ന് അവർ പറയുന്നു അതിനാൽ ആൺകുട്ടി ഞാൻ പറഞ്ഞതുപോലെ റൌത്തറും അമ്പിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഏത് നിർദ്ദിഷ്ട സന്ദർഭത്തിൽ ഈ അഭ്യർത്ഥന നടത്തണമെന്ന് അവനറിയാം അതിനാൽ ഉചിതമായ സമയത്ത് അവൻ ചോദിക്കുന്നു ദയവായി നിങ്ങൾ വരാമോ എന്ന് പറഞ്ഞു കാരണം നീ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു അപ്പയ്ക്ക് വേണ്ടി അവൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഉടനടി റൌത്തർ അത് സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഓക്കേ നമുക്ക് കടയിലേക്ക് പോകാം അവിടെ വീണ്ടും മറ്റൊരുതരം ഞെട്ടലോ ആശ്ചര്യമോ ഉണ്ടാകുന്നു കാരണം നമ്മൾ ആ എപ്പിസോഡിലൂടെ അമ്പിയുടെ വാക്കുകളിലൂടെ ഡയലോഗ് ബൈ ഡയലോഗ് കടന്നുപോയി ആ പരുഷമായ വിനിമയത്തിന് ശേഷം അതായത് നമ്മുടെ ബന്ധം തുടരാൻ നീ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൻ അപ്പയോട് പറഞ്ഞതിനു ശേഷം അവൻ അത് പരിഹാസത്തോടെ പറയുന്നു റൌത്തർ ആ ചോദ്യം ചോദിക്കുന്ന സ്വരവും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ആ പരുഷമായ ആശയ വിനിമയത്തിന് ശേഷം ഉടമയും റൌത്തറും തമ്മിലുള്ള ഏതാണ്ട് ക്രൂരമായ ആശയ വിനിമയം അവന്റെ പെട്ടെന്നുള്ള മനസ്സ് മാറ്റം മറ്റൊരു സന്തോഷകരമായ ആശ്ചര്യമാണ് തുടർന്ന് കാര്യങ്ങൾ സാധാരണ നിലയിലാകുന്നു അപ്പോഴാണ് അഭിമന്യുവിന്റെ ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് വായിച്ച ഈ നിർദ്ദിഷ്ട ഉദ്ധരണിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതിനാൽ ഇതാണ് സംഭവിക്കുന്നത് സംഭവങ്ങൾ അവിടെ സംക്ഷിപ്തമാണ് അവൻ നന്നായി പ്രവർത്തിക്കുന്നു റൌത്തറിന്റെ ഭാഗത്ത് നിന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കടയിൽ പ്രതിസന്ധി സൃഷ്ട്ടിച്ച വസ്ത്രങ്ങളുടെ എപ്പിസോഡിനെക്കുറിച്ച് യാതൊരു പരാമർശമില്ല അവൻ വലിയ ഉന്മേഷത്തോടെ ജോലി ചെയ്തു അവൻ ശരിക്കും സന്തോഷവാനാണ് സന്തുഷ്ടനാണ് അവൻ കടയുടെ മുഴുവൻ മേൽനോട്ടവും വഹിക്കുന്നു ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കഴിയുന്നത്ര വേഗത്തിൽ ബില്ലുകൾ നൽകുന്നതിനുമായി അദ്ദേഹം അവരുമായി പോരാട്ടം ചെയ്യുന്നു അതിനാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ എല്ലാം നന്നായി പോകുന്നു അതിനാൽ അവിടെ ഒരു കുന്നും താഴ്വരയും ഉണ്ട് റൌത്തറിന്റെ മാനസികാവസ്ഥയുടെ കാര്യത്തിലും ആഖ്യാനത്തിന്റെ കാര്യത്തിലും അവിടെ ഒരു ഉയർച്ചയും താഴ്ചയും ഉണ്ട് അത് ഒരു പ്രത്യേക ഉയരത്തിലേക്ക് പോകുകയും പിന്നീട് താഴേക്ക് വരികയോ ആഴത്തിൽ മുങ്ങുകയോ ചെയ്യുന്ന ഒരു വൈകാരിക യാത്രയാണ് ഓക്കേ നിങ്ങൾ കടയിലേക്ക് വരേണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുള്ളതിനാൽ ദയവായി കടയിലേക്ക് തിരികെ വരിക അംബി ആ അഭ്യർത്ഥന നടത്തിയ ഉടൻ തന്നെ ഇത് റൌത്തറിനെ സ്വാധീനിക്കുന്നു അതിനാൽ റൌത്തറിന്റെ മുഖം തിളങ്ങി അവന്റെ മുഖം തിളങ്ങുന്നു അവൻ കൈകൾ ഉയർത്തി സല്യൂട്ട് ചെയ്തു അമ്മേ നിങ്ങൾ ഒരു മഹതിയായ സ്ത്രീയാണ് അവൻ പറഞ്ഞു എഴുന്നേൽക്കു നമുക്ക് ഉടൻ കടയിലേക്ക് പോകാം അവൻ വളരെ ചടുലനാണ് അവൻ വളരെ വേഗത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളുടെ എപ്പിസോഡിനെക്കുറിച്ച് കൂടുതൽ പരാമർശമൊന്നും ആഖ്യാനത്തിൽ ഇല്ല അതിനാൽ ഈ സല്യൂട്ട് കടയുടമയുടെ ദിശയിലേക്ക് ആ കാഴ്ചയില്ലാത്ത നോട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് പുരുഷന്മാർക്ക് ഇടയിൽ മധ്യസ്ഥയായി മാറിയ സ്ത്രീയെ അദ്ദേഹം ഒരു തരത്തിൽ സല്യൂട്ട് ചെയ്യുന്നതായി കാണുന്നു അതിനാൽ അവളെ അവിടെ പ്രതീകാത്മകമായി നന്ദി പറയുന്നു ഒപ്പം കാര്യങ്ങൾ എല്ലാം പഴയപടിയായി ഇനി നമുക്ക് ഫോർഷാഡോയിങ് എന്ന ഈ ആശയം നോക്കാം ഞങ്ങൾ ഫ്ലാഷ്ബാക്കുകൾ നോക്കി ഇപ്പോൾ നമ്മൾ പ്രൊലെപ്സിസ് ഫോർഷാഡോയിങ് നോക്കാൻ പോകുന്നു ഈ കഥയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ മുൻനിഴൽ ചെറുതും എന്നാൽ തീവ്രവുമായ മുൻനിഴൽ ഉണ്ട് ഈ കഥയിൽ പരാമർശിച്ചിരിക്കുന്ന ഫോർഷാഡോയിങ് ഇതാണ് നിന്നെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം വരുമെന്ന് അപ്പ പറയുന്നു ഈ പരാമർശം നടത്തുമ്പോൾ അയാൾക്ക് വല്ലാത്ത അതൃപ്തിയുണ്ട് എതിരാളിയായ ചെട്ടിയാർ നടത്തുന്ന ഒരു തുണിക്കടയിൽ പോയി ജോലി ചെയ്യുന്ന റൌത്തറിന്റെ പെരുമാറ്റം അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു അപ്പ അവനെ സാമ്പത്തികമായി വൻതോതിൽ സഹായിച്ചതിന് ശേഷം അവൻ തന്റെ വീട്ടിലെ കടങ്ങൾ വീട്ടുകയും വീട് ലേലത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എതിരാളിയായ തുണിക്കച്ചവടക്കാരനായ ചെട്ടിയാർക്ക് വേണ്ടി അദ്ദേഹം വീണ്ടും ജോലിക്ക് പോകുന്നു അത് അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുന്നു അപ്പോൾ അദ്ദേഹം ആ പരാമർശം നടത്തുകയും ചെയ്യുന്നു നിന്നെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം വരും അപ്പോൾ റൌത്തർ പറഞ്ഞു ദയവുചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയരുത് അയ്യാ വരൂ എനിക്ക് വേണ്ടി ജോലി ചെയ്യൂ കടങ്ങൾ താൻ തീർത്ത് തരാം എന്ന് ചെട്ടിയാർ പറഞ്ഞു അപ്പോൾ എനിക്ക് സമനില നഷ്ടപ്പെട്ടു നിന്റെ കടമെല്ലാം ഞാൻ തീർത്തു തരാം എന്ന് അയാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയി അവന്റെ അടുത്ത് ജോലി ചെയ്യേണ്ടി വന്നു അപ്പ ആവർത്തിച്ചതേയുള്ളു നിന്നെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം വരും ഈ ഫോർഷാഡോയിങ് കഥയിൽ ഉടനടി സാക്ഷാത്കരിക്കപ്പെടുന്നു കാരണം ഈ സംഭാഷണത്തിന് തൊട്ടുപിന്നാലെ റൌത്തറിന് വരാൻ പോകുന്ന ഭീഷണിയുടെ ഒരു സൂചനയുണ്ട് ഈ കഥയിലേക്ക് നോക്കിയാൽ ഉടൻ തന്നെ അത് യാഥാർഥ്യമായി എന്ന് മനസ്സിലാക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു പരോക്ഷമായ ഭീഷണിയുണ്ട് കൂടാതെ വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഫോർഷാഡോയിങ്ങിലും ഒരു മറഞ്ഞിരിക്കുന്ന ദുരന്തമുണ്ട് അയാൾ അവനെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം വരും എന്ന് പറയുന്നു ആ വാക്യത്തിന്റെ അർത്ഥമെന്താണ് ഇത് അക്ഷരാർത്ഥത്തിൽ കാണിക്കുന്നത് ആരെങ്കിലും അവർ വിചാരിക്കുന്നത്ര മിടുക്കരോ അല്ലെങ്കിൽ പ്രാധാന്യമുള്ളവരോ അല്ലെന്ന് കാണിക്കുക എന്നാണ് അതിനാൽ നിലക്ക് നിർത്തുക എന്ന ആ വാക്യത്തിന്റെ അർത്ഥം അതാണ് റൌത്തറിന്റെ സന്ദർഭത്തിൽ അത് അവന്റെ അഹന്തയെ നശിപ്പിക്കുക മാത്രമല്ല അവന്റെ ഉപജീവനമാർഗവും നശിപ്പിക്കുന്നു എന്നതാണ് അതിനാൽ റൌത്തറിന്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ പ്രധാനമാണ് അതിനാൽ എല്ലാവരേയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഭീഷണി തിരിച്ചറിഞ്ഞ് എല്ലാവരേയും അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി അതിനുശേഷം അപ്പ ശരിയാകുമെന്ന് തോന്നി തന്റെ മൊത്തക്കച്ചവടക്കാരെ കണ്ടതിന് ശേഷം ആ വർഷം ബോംബെയിൽ നിന്ന് മടങ്ങി അവൻ ഒരു ചെറിയ യന്ത്രം തിരികെ കൊണ്ടുവന്നു എന്നിട്ട് അത് അമ്മയെ കാണിച്ചു ഇതിന് കണക്കുകൂട്ടലുകൾ ചെയ്യാൻ കഴിയും അവൻ പറഞ്ഞു ഒരു യന്ത്രത്തിനോ ഇതിന് കഴിയും അതിന് വേണ്ടി ചരട് വലിക്കുന്ന അപ്പ ആ ത്രെഡ് സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് അവൻ ഉറപ്പാക്കുന്നു കാരണം അയാൾ ബോംബെയിൽ പോകുമ്പോൾ കണക്കുകൂട്ടലുകൾ ചെയ്യാൻ കഴിയുന്ന ഈ യന്ത്രം കിട്ടുന്നു വസ്തുതകൾ ലളിതമായി അദ്ദേഹം പറയുന്ന രീതി നോക്കൂ അവൻ വസ്തുതകൾ മാത്രം എടുക്കുന്നു റൌതറിന്റെ മനസ്സിലും റൌതറിന്റെ ഉപജീവനത്തിലും യന്ത്രം ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായവും പറയുന്നില്ല അതിനാൽ അവൻ പറയുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആഖ്യാതാവ് പറയുന്നു എല്ലാവരേയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവൻ പറയുന്നു കാരണം വായനക്കാരും അത്തരമൊരു സർപ്രൈസ് പ്രതീക്ഷിച്ചിരുന്നു കാരണം അവർക്കും ആ സൂചന നൽകിയിട്ടുണ്ട് ആ ഒരു സൂചന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു റൌത്തറിനോട് സഹതപിച്ചേക്കാവുന്ന പലർക്കും അത് അത്ര സന്തോഷകരമല്ല വാസ്തവത്തിൽ സർപ്രൈസ് എന്നത് ശരിക്കും ഭാഗ്യത്തിന്റെ വിപരീതമാണ് കാരണം റൌത്തർ തന്റെ ഭാഗ്യത്തിന്റെ ഉന്നതിയിലാണ് യന്ത്രത്തിന്റെ വരവോടെ അവന്റെ ഭാഗ്യം മാറിമറിഞ്ഞു അവന് ലഭിച്ച ഭാഗ്യത്തിന്റെ കാര്യത്തിൽ അവൻ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുമ്പോൾ എല്ലാം പഴയ പടിലേക്ക് മടങ്ങുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ യന്ത്രത്തിന്റെ ആഘാതത്തെക്കുറിച്ച് റൌത്തറുമായി ബന്ധപ്പെട്ട് പിതാവ് ഒരു അഭിപ്രായവും പറയുന്നില്ല മാത്രമല്ല അദ്ദേഹം വളരെ വസ്തുതാപരവുമാണ് അയാൾ വസ്തുത പറയുന്നു യന്ത്രത്തിന് കണക്കുകൂട്ടലുകൾ ചെയ്യാൻ കഴിയും അയാൾ ഇത് ഭാര്യയെ കാണിക്കുന്നു കാരണം തുടക്കത്തിൽ അയാൾ അയാളുടെ ഭാര്യയുമായുള്ള ആശയവിനിമയം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഭാര്യ ചോദിക്കുന്നു ഈ ലോകത്തിൽ വളരെ വേഗത്തിൽ കണക്കുകൂട്ടലുകൾ ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി റൌത്തർ മാത്രമാണോ എന്ന് 'റീഫ്ലവറിങ്' എന്നതിന്റെ ആഖ്യാനഘടനയുടെ അടിസ്ഥാനത്തിൽ ഫോർഷാഡോയിങിന്റെ പ്രവർത്തനം എന്താണ് ഫോർഷാഡോയിങിലുള്ള ആ വഞ്ചനാപരമായ ഭീഷണി ഒരു കൊളുത്ത് പോലെയാണ് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ചൂണ്ട പോലെയാണ് കഥ വളരെ അടുത്ത് വായിക്കുമ്പോൾ അവർ കൂടുതൽ ഉത്കണ്ഠാകുലരാകുന്നു ഈ വൃദ്ധന് ഈ അന്ധനായ വൃദ്ധന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ വായനക്കാരുടെ കാത്തിരിപ്പ് ആ ഫോർഷാഡോയിങ്ങിലൂടെ ഒരു തരം തീവ്രമാകുകയാണ് ഇത് ഒരു വശീകരണമായി മാറുന്നു വായനക്കാർക്ക് ഒരു ആകർഷണമായി മാറുന്നു അത്തരം ഒരു വിവരണ ഉപകരണത്തിലൂടെ വായനാസുഖം വർദ്ധിക്കുന്നു ഓക്കേ അപ്പോൾ എന്താണ് ദുരന്തം റൌത്തറിന്റെ വൈകാരികവും ശാരീരികവുമായ തകർച്ചയാണ് ഫോർഷാഡോയിങ്ങിലൂടെ തിരിച്ചറിയപ്പെടുന്ന ദുരന്തം ഈ വൃദ്ധൻ അന്ധനായ ഈ വൃദ്ധൻ ആരെയും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിക്ക് യന്ത്രത്തിന്റെ ഭീഷണി നേരിടാൻ കഴിയുന്നില്ല അതാണ് ദുരന്തം എന്താണ് കോമഡി കാരണം ഈ കഥയിലെ ദുരന്തത്തോടെ നമ്മൾ അവസാനിക്കുന്നില്ല നമ്മൾ കോമഡിയിൽ അവസാനിക്കുന്നു എല്ലാം സാധാരണ നിലയിലാകുന്നു കാര്യങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുന്നു അതെങ്ങനെ സംഭവിക്കുന്നു റൌത്തറിന്റെ തിരിച്ചുവരവിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് കടയുടെ തുണിക്കടയുടെ നടത്തിപ്പിനായി തന്റെ ഓർമ്മയുടെ സാധ്യതയും ആ ഓർമ്മയുടെ മൂല്യവും തിരിച്ചറിയുന്ന റൌത്തറിന്റെ ആത്മാവിന്റെ പുനരുജ്ജീവനത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ ഇത് ഒരു ദുരന്തമാണ് അത് ദുരന്തത്തെ തുടർന്ന് ഉള്ള കോമഡിയാണ് അതിനാൽ നമുക്ക് പ്രതിസന്ധിയുണ്ട് വലിയ പ്രതിസന്ധി ആത്യന്തിക പ്രതിസന്ധി കഥയുടെ അവസാനത്തിൽ ഒരു കോമിക് ഇഫക്റ്റിൽ എത്താൻ വേണ്ടി അത് പരിഹരിച്ചു കോമഡി എന്നത് കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങി എന്ന അർത്ഥത്തിൽ അത് ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനിക്കുന്നു 'ഹാഹാഹാ തമാശ' പോലെ ഉള്ള കോമഡി അല്ല അത്തരത്തിലുള്ള കോമഡിയെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഈ നിർദ്ദിഷ്ട കഥയിലെ അംഗങ്ങൾ കൈവരിക്കുന്ന സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ റൌത്തറിന്റെ തിരിച്ച് വരവ് ദുരന്ത തലത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് വീണ്ടും ഒരു അത്ഭുതകരമായ ഘടകമുണ്ട് കാരണം നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല വായനക്കാരെന്ന നിലയിൽ നമ്മൾ അത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല റൌത്തറിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് മാത്രം സൂചന നൽകുന്ന ഫോർഷാഡോയിങ് അയാൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോകുന്ന സന്തോഷകരമായ അന്ത്യത്തെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല അതിൽ അവൻ സ്വയം തന്നെത്തന്നെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുന്നു അതിനെക്കുറിച്ച് ഫോർഷാഡോയിങ്ങിൽ പരാമർശിക്കുന്നില്ല റൌത്തറിന്റെ ഈഗോ കുറയ്ക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഫോർഷാഡോയിങ്ങിൽ പറയുന്നത് വാസ്തവത്തിൽ കഥയുടെ അവസാനം നോക്കുമ്പോൾ അവന്റെ ഈഗോ ഇരട്ടിയായി മൂന്നിരട്ടിയായി വർദ്ധിച്ചു കാരണം അവൻ മുഴുവൻ സ്റ്റോറിന്റെയും സൂപ്പർവൈസറായി മാറുന്നു സ്റ്റോറിന്റെ ഉടമ പോലും റൌത്തറിന്റെ കൈയിലെ കുട്ടിയെപ്പോലെയാണ് കാരണം കഥയുടെ അവസാനത്തിൽ അദ്ദേഹം അവന്റെ എല്ലാ ഉത്തരവുകളും എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ആജ്ഞകളും പാലിക്കുന്നു അതിനാൽ ഉടമയെ പോലും ഈ വൃദ്ധനാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ കഥയുടെ അവസാനത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഉയർച്ചയുണ്ട് അത് ഈ നിർദ്ദിഷ്ട കഥയുടെ ആഖ്യാന ഘടന വീണ്ടും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഘടകമാണ് ഓക്കേ ഈ കഥയിൽ അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം അവന്റെ ശബ്ദം മന്ദഗതിയിലായിരുന്നു മടിയോടെ അവന്റെ ശരീരം മെലിഞ്ഞതായി കാണപ്പെട്ടു അപ്പ അവനോട് ബില്ലുകൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് നിർത്തി അതിനാൽ ഇതാണ് ദുരന്തഭാഗം ഇതാണ് തകർച്ച കാണിക്കുന്ന ഭാഗം എന്നാൽ ഇതിന് തൊട്ടുപിന്നാലെ ആ ആഖ്യാനം വീണ്ടും ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണ് ഈ നിർദ്ദിഷ്ട കഥ മുകളിലേക്ക് ചലിപ്പിക്കുന്നത് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കടയിൽ തിരക്കുള്ള സമയമായിരുന്നു മുരുകന്റെ പക്കൽ മുറിച്ച പീസുകളുടെ ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ ചെലവിനെ കുറിച്ച് കണക്ക് കൂട്ടുകയായിരുന്നു പെട്ടെന്ന് റൌത്തർ അവനെ തടസ്സപ്പെടുത്തി 'പോപ്ലിന്റെ വിലയെന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ' റൌത്തർ തന്റെ കുതിരപ്പുറത്തേറി തിരിച്ചെത്തുമ്പോൾ അതാണ് ഈ കഥയിലെ നിമിഷം റൌത്തർ തന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിലേക്ക് തിരികെ വരുന്നു അപ്പോഴാണ് റൌത്തർ വീണ്ടും പൂക്കാൻ തുടങ്ങുന്നത് അവന്റെ ആത്മാവ് വീണ്ടും പൂക്കാൻ തുടങ്ങുന്നു കാരണം റൌത്തറിന്റെ ഭാഗത്തുനിന്നുള്ള ആ ചോദ്യം അവനോട് ഉത്തരം പറഞ്ഞുകഴിഞ്ഞു കാരണം ആ തുണിയുടെ വിലയുടെ കാര്യത്തിൽ മുരുകൻ പറഞ്ഞത് തെറ്റാണെന്ന് അവനറിയാം അതിന്റെ ശരിയായ വില എന്താണെന്ന് അവനറിയാം ആ ഉത്തരത്തിലൂടെ ആ സ്റ്റോറിൽ തനിക്കെതിരായ മുഴുവൻ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് അവനറിയാം റൌത്തറിന്റെ പതനം നമുക്ക് കാണാൻ കഴിയും എല്ലാവരുടെയും കണക്കുകൂട്ടലിൽ അവൻ വീണ്ടും ഉയരാൻ തുടങ്ങുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും കടയുടെ സഹായി മാത്രമല്ല കട മുഴുവനും അതിൽ കടയുടമയും കുട്ടിയും ഗോമതിയും എല്ലാവരുമുൾപ്പെടുന്നു ഇതെല്ലാം നമ്മൾ എങ്ങനെ കാണുന്നു പ്രോലെപ്സിസ് അനാലെപ്സിസ് സാദൃശ്യങ്ങൾ ആലങ്കാരിക ഭാഷ എന്നീ ആഖ്യാന ഉപകരണങ്ങളെയെല്ലാം നമ്മൾ എങ്ങനെ കാണുന്നു ഒരു കഥയുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ ആക്സസ് ചെയ്യും ഓക്കേ ഒരു വായനക്കാരന് ആഖ്യാന ഘടനയുടെ കാര്യത്തിൽ രണ്ട് താൽപ്പര്യങ്ങളുണ്ട് ആദ്യത്തേത് വൈജ്ഞാനിക താൽപ്പര്യവും രണ്ടാമത്തേത് വൈകാരിക താൽപ്പര്യവുമാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിജ്ഞാനം ബൌദ്ധിക ചിന്താ വശം ഏർപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വൈജ്ഞാനിക താൽപ്പര്യം ഓക്കേ അതിനാൽ അതിനൊപ്പമുള്ള ആഖ്യാന ഘടന ഉയർച്ച താഴ്ചകളാണ് അതിന്റെ ഫ്ലാഷ്ബാക്കുകളും ഫ്ലാഷ് ഫോർവേഡുകളും അതോടൊപ്പം ഫോർഷാഡോയിങ്ങും ഫ്ലാഷ്ബാക്കുകളും ഉണ്ട് അതിനാൽ ഇത് വായനക്കാരുടെ വൈജ്ഞാനിക താൽപ്പര്യം പിടിച്ചെടുക്കുന്നു വൈകാരിക താൽപ്പര്യം വികാരങ്ങളിൽ നിന്നും കഥാപാത്രങ്ങൾക്കിടയിൽ കെട്ടിച്ചമച്ചതും തകർന്നതുമായ ബന്ധങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന താൽപ്പര്യമാണ് അതിനാൽ വൈകാരിക താൽപ്പര്യവും വൈജ്ഞാനിക താൽപ്പര്യവും ആ പ്രവർത്തനത്തിന്റെ ആക്കം നിലനിർത്തുന്നു ആ നിർദ്ദിഷ്ട കഥയിൽ വായനക്കാരന്റെ താൽപ്പര്യം നിലനിർത്തുന്നു ഈ വൈജ്ഞാനികവും വൈകാരികവുമായ താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാൾട്ടറിന്റെ ആശയങ്ങൾ വരച്ച് കാണിക്കുന്നു അതിനാൽ വൈജ്ഞാനിക താൽപ്പര്യം ഞാൻ പറഞ്ഞതുപോലെ സംഭാഷണ ഘടന ആഖ്യാനത്തിന്റെ ഘടന എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഓക്കേ ഒരു നിർദ്ദിഷ്ട വിവരണത്തിൽ രചയിതാവ് സംഭവങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആലങ്കാരിക ഭാഷയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് തിരഞ്ഞെടുത്തത് ചില ഫ്ലാഷ്ബാക്കുകൾ ഉണ്ടെന്ന് അവൻ തീരുമാനിക്കുമോ അവൻ അല്ലെങ്കിൽ അവൾ ഫോർഷാഡോയിങ്ങിന്റെ ചില ഫ്ലാഷ് ഫോർവേഡുകൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടോ അതിനാൽ അതാണ് പ്രഭാഷണ ഘടന നമ്മുടെ വൈജ്ഞാനിക താൽപ്പര്യം ഈ നിർദ്ദിഷ്ട വ്യവഹാര ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു വൈകാരിക താൽപ്പര്യം ഞാൻ പറഞ്ഞതുപോലെ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ വൈകാരികത സംഭവങ്ങളുടെ സ്വഭാവം കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ചിലരിൽ ഈ രണ്ടും വൈകാരിക താൽപ്പര്യവും വൈജ്ഞാനിക താൽപ്പര്യവും ഒരു ചെറുകഥയുടെ വിജയത്തിന് കാരണമാകുന്നു വൈജ്ഞാനിക താൽപ്പര്യം ഉയർന്നതാണെങ്കിൽ മാത്രമേ വൈകാരിക ആഘാതവും വായനക്കാരുടെ മനസ്സിൽ ആനുപാതികമായി ഉയർന്നതായിരിക്കുമെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു അതിനാൽ ഘടന തീരുമാനിക്കുന്നു ഫലപ്രദമായ ഘടന വായനക്കാരുടെ ഭാഗത്തെ ശ്രദ്ധാ തലവും വൈകാരിക വിഹിതവും തീരുമാനിക്കുന്നു ഈ പ്രഭാഷണം ശ്രദ്ധിച്ചതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ കാണും